ഒരു കപ്പാസ്റ്ററിലുള്ള പവറും ഊർജ്ജവും ഇനി ഞാൻ ഒരു കപ്പാസ്റ്ററിലുള്ള പവറും ഊർജ്ജവും പരിഗണിക്കും പതിവുപോലെ നമ്മൾ ഔചിത്യ പൂർവ്വമായ പാസ്സീവ് സൈൻ കൺവെൻഷൻ വോൾട്ടേജിനും കറണ്ടിനും എടുക്കുന്നു എങ്കിൽ പവർ വേറെ ഏതൊരു രണ്ടു ടെർമിനൽ ഘടകത്തെ പോലെയും വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഗുണനഫലം ആണ് പക്ഷെ തീർച്ചയായും കപ്പാസിറ്ററിന്റെ കാരക്ടറിസ്റ്റിക്സ് നടപ്പിലാക്കുക എന്ന കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും തമ്മിലുള്ള ബന്ധം ആണ് തീർച്ചയായും ഈ കറണ്ട് നമുക്ക് ഈ പദപ്രയോഗത്തിലേക്ക് പകരം വെക്കണം കിട്ടുന്നതിനായി ആദ്യമായി തന്നെ ഈ പദപ്രയോഗം റെസിസ്റ്ററിനെക്കാളും കുറച്ചധികം സങ്കീർണ്ണമാണെന്നു തോന്നുന്നു പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കപ്പാസ്റ്ററിലേക്ക് കൊടുത്തിട്ടുള്ള പവർ ഇത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം കാരണം നമുക്ക് ഏതേലും വോൾട്ടേജ് വേവ്ഫോം എടുക്കാം വോൾടേജ് ഈ രീതിയിൽ മാറാം സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ സ്പഷ്ടമായിട്ടു കാണാം വോൾട്ടേജ് പോസിറ്റീവ് ആണെന്ന് ഇതിന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് ഇതിന്റെ അർത്ഥം മുകളിലത്തെ തട്ടിൽ ഒരു പോസിറ്റീവ് വോൾടേജ് ഉണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് കൂടാതെ ഇത് സമയത്തിന് അനുസൃതമായി കൂടുകയും ചെയ്യുന്നു അപ്പോൾ മുകളിലത്തെ ടെർമിനലിൽ കറണ്ട് ഒഴുകണം അതിനാൽ കറണ്ടും പോസിറ്റീവ് ആണ് അതിനാൽ ഇവിടെ ഗുണനഫലം പോസിറ്റീവ് ആണ് കൂടാതെ കപ്പാസിറ്റർ വലിച്ചെടുക്കുന്ന പവർ വേറെ രീതിയിലും ഇത് സാധ്യമാണ് നമുക്ക് സങ്കല്പിക്കാം വോൾട്ടേജ് അതാണ് വോൾടേജ് പോസിറ്റീവ് ആണ് പക്ഷെ അതിന്റെ ടൈം ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ് ഇവിടെ ഈ ഗുണനഫലം നെഗറ്റീവ് ആണ് കപ്പാസിറ്റർ പവർ കൊടുക്കുന്നു അത് നെഗറ്റീവ് പവർ ആണ് വലിച്ചെടുക്കുന്നത് നമ്മൾ ആ വഴി നോക്കിയാൽ അതായത് V നെഗറ്റീവ് ആണ് ടൈം ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ അപ്പോൾ ഗുണനഫലം പോസിറ്റീവ് ആണ് ഈ കേസിൽ വീണ്ടും കപ്പാസിറ്റർ പവർ വലിച്ചെടുക്കുന്നു അവസാനമായി V നെഗറ്റീവ് ആകുമ്പോൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ കാരണം വോൾട്ടേജ് കൂടുന്നു കപ്പാസിറ്റർ പവർ കൊടുക്കുന്നു ഇത് സാധ്യമാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വോൾട്ടേജിന്റെ മൂല്യത്തിനു അനുസൃതമായി അതിന്റെ തോതിനനുസരിച്ചു നമുക്ക് കപ്പാസിറ്റർ ഒന്നെങ്കിൽ പവർ കൊടുക്കുന്ന പോലെ ആക്കാം അല്ലെങ്കിൽ പവർ വലിച്ചെടുക്കുന്ന പോലെ ആക്കാം അപ്പോൾ ഇവിടെ പവർ വലിച്ചെടുക്കുന്നു പവർ കൊടുക്കുന്നു ഇവിടെ വീണ്ടും ഞാൻ വേവ്ഫോമിന്റെ ഈ പച്ച ഭാഗം കാണിച്ചിരിക്കുന്നിടത്തു ഇത് പവർ വലിച്ചെടുക്കുന്നു ഈ ഭാഗത്തു പവർ കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം സാധ്യമാണ് ഇനി കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്ന പവർ പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം നിങ്ങൾ എങ്ങനെ പറയും കപ്പാസിറ്റർ പാസ്സീവ് ഘടകമാണോ അല്ലെങ്കിൽ നമ്മൾ കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്ന ഊർജ്ജം എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും p യുടെ ഇന്റഗ്രൽ ആയിരിക്കും അതായത് ന്റെ ഇന്റഗ്രൽ നമുക്ക് സങ്കല്പിക്കാം കപ്പാസിറ്ററിനു കുറുകെ ഉള്ള വോൾടേജ് കപ്പാസിറ്ററിനു കുറുകെ ഉള്ള വോൾടേജ് 0 മുതൽ t1 വരെ ഉള്ള സമയത്തു 0 ത്തിൽ നിന്ന് ലേക്ക് മാറും അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസ് സമയത്തിന്റെ ആക്സിസ് ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0 മുതൽ t1 വരെ കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്ന പവർ ആണ് അപ്പോൾ നമ്മൾ 0 മുതൽ t1 വരെ ഇന്റഗ്രൽ ചെയ്യണണം ഇത് വേറൊന്നുമല്ല പക്ഷെ 0 മുതൽ t1 ഇത് വളരെ സങ്കീർണ്ണമാണ് V ക്കു തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് നമ്മൾ എന്താണെന്ന് പ്രസ്താവിച്ചിട്ടില്ല ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് വളരെ സങ്കീർണ്ണമായി തോന്നും അവസാനം ഇതിന്റെ ഇന്റഗ്രൽ നമ്മൾ കണ്ടുപിടിച്ചതു പക്ഷെ ഇത് വളരെ എളുപ്പമായിട്ടാണ് തീരുന്നതു ഇത് നമ്മൾ സാക്ഷാത്കരിക്കുന്ന ഒരുവേവ്ഫോമിനേയും ആശ്രയിക്കുന്നില്ല അതായത് V വേറൊന്നുമല്ല പക്ഷെ ന്റെ ടൈം ഡെറിവേറ്റീവിനെ ആശ്രയിച്ചു ഇരിക്കും ന്റെ ടൈം ഡെറിവേറ്റീവ് ആണ് അപ്പോൾ ഈ ഭാഗം ആണ് അപ്പോൾ കപ്പാസിറ്ററിലേക്ക് ഉള്ള ഊർജ്ജം വേറൊന്നുമല്ല പക്ഷെ C ഡിവൈഡഡ് ബൈ രണ്ടു ഇവിടെ നിന്ന് അത്രയും തവണ ന്റെ ടൈം ഡെറിവേറ്റീവിന്റെ ഇന്റഗ്രൽ നമുക്ക് ന്റെ ടൈം ഡെറിവേറ്റീവ് ഉണ്ട് എന്നിട്ട് നമ്മൾ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്റഗ്രേറ്റ് ചെയ്യും അപ്പോൾ സുനിശ്ചിതമായും നമുക്ക് കിട്ടുന്നത് ഈ ഫങ്ക്ഷന് ആണ് 0 തൊട്ടു t1 വരെ ഉള്ള സമയത്തു ഉള്ള ഇതിന്റെ അർത്ഥം വോൾടേജ് 0 തൊട്ടു t1 വരെ പോകുമ്പോൾ വോൾടേജ് 0 തൊട്ടു VC വരെ പോകും അവസാനം നമുക്ക് കപ്പാസിറ്ററിലേക്ക് ഉള്ള ഊർജ്ജം തരുന്ന പദപ്രയോഗം കിട്ടും ഈ ഇന്റെർവെലിന് കുറുകെ അതായത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റർ 0 വോൾട്ടിൽ നിന്ന് തുടങ്ങുന്നത് ഉണ്ടെങ്കിൽ എന്നിട്ട് അതിന്റെ വോൾടേജ് നിങ്ങൾ മാറ്റി 0 തൊട്ട് വോൾടേജ് വരെ ഒരു വിധത്തിൽ ഏതു വേവ്ഫോം ആണ് ഉപയോഗിക്കുന്നതെന്നതു വിഷയം അല്ല കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്ന മൊത്തം വോൾടേജ് ആണ് ഇനി തീർച്ചയായും ഇത് നിങ്ങൾക്ക് തരുന്നത് കപ്പാസിറ്ററിന്റെ ഊർജ്ജത്തിന്റെ ഫോർമുല ആണ് അതായത് വോൾടേജ് ആകുമ്പോൾ കാരണം കപ്പാസിറ്റർ വോൾടേജ് ആണെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം ഇത് 0 തൊട്ട് വരെ ഉള്ള വോൾടേജ് ആണ് എടുത്തിട്ടുള്ളത് എന്ന് അപ്പോൾ നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾ ഊർജ്ജം കപ്പാസിറ്ററിലേക്ക് കൊടുത്തു കൂടാതെ ഈ ഊർജ്ജം കപ്പാസിറ്ററിൽ സംഭരിച്ചിട്ടുണ്ടാകും കാരണം ഇത് ഇനി നിങ്ങൾ തിരിച്ചു 0 ആക്കിയാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് അത് ഇവിടെ ഉള്ള കപ്പാസിറ്ററിന്റെ ഊർജ്ജം ആണ് നമുക്ക് പറയാം കപ്പാസിറ്ററിന്റെ വോൾടേജ് പൂജ്യത്തിലേക്ക് പോയതിനു ശേഷം ഇത് പോലെ കൂടാതെ നമുക്ക് അറിയാം ഈ ഇടവേളയിൽ വോൾടേജ് പോസ്റ്റിറ്റീവ് ആകുമ്പോൾ ടൈം ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ് അത് പവർ കൊടുക്കുന്നു പക്ഷെ നമുക്ക് അറിയാം ഇവിടുള്ള ഊർജ്ജം വീണ്ടും പൂജ്യം ആകുമെന്ന് അത് പൂജ്യത്തിൽ നിന്ന് തുടങ്ങും എന്നിട്ട് ലേക്ക് പോകും എന്നിട് 0 ലേക്ക് വരും അപ്പോൾ ഈ ഊർജ്ജം നിങ്ങൾ കൊടുത്തതു വേറെ എവിടെയും പോകില്ല അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്തു നിങ്ങൾ കപ്പാസിറ്ററിലേക്ക് ഊർജ്ജം കൊടുത്തു കൂടാതെ ഡിസ്ചാർജിന്റെ സമയത്തു വോൾടേജ് C നിന്ന് താഴേക്ക് 0 ലേക്ക് പോകുന്നു നിങ്ങള്ക്ക് എല്ലാ ഊർജ്ജവും വീണ്ടെടുക്കാം അപ്പോൾ ഒരു കപ്പാസിറ്റർ ഊർജ്ജം സംഭരിക്കുന്നത് റെസിസ്റ്റർ ഊർജ്ജം കൊടുക്കുന്ന പോലെയല്ല പക്ഷെ ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്ന ഊർജ്ജം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അതായത് നിങ്ങൾ അനുമാനിക്കുക കപ്പാസിറ്റർ തുടങ്ങുന്നത് 0 വോൾട്ടിൽ നിന്നാണ് അതിനു 0 ഊർജ്ജം ഉണ്ട് അത് കഴിഞ്ഞ നിങ്ങൾ വോൾടേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റിക്കൊള്ളൂ എന്നിട് അതിനെ ഒരു വോൾറ്റേജ്ജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ അതിലേക്ക് വരുന്ന ഊർജ്ജം ആയിരിക്കും കാരണം ഊർജ്ജത്തിന്റെ സ്ക്വയർ പദം പോസിറ്റീവ് ആയിരിക്കും അതിന്റെ അർത്ഥം ഒരു പോസിറ്റീവ് ഊർജ്ജം ആണ് കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കൽ കപ്പാസിറ്റർ കുറച്ചു വോൾറ്റേജ്ജിലേക്ക് ചാർജ് ചെയ്താൽ നമുക്ക് കപ്പാസിറ്റർ ബാക്കി സർക്യൂട്ടിലേക്ക് ഊർജ്ജം കൊടുക്കുന്ന രീതിയിൽ ആക്കാം പക്ഷെ 0 വോൾട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ കപ്പാസിറ്റർ എപ്പോഴും ഊർജ്ജം വലിച്ചെടുക്കും കപ്പാസിറ്റർ ഒരു പാസ്സീവ് ഘടകം കൂടി ആണ് അതിനാൽ ഞാൻ പറഞ്ഞത് പോലെ നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് വരെ ചാർജ് ചെയ്യാം ഇനി നമുക്ക് ഉള്ളത് ബാക്കി സർക്യൂട്ടിലേക് കപ്പാസിറ്ററിൽ നിന്ന് കൊടുക്കുന്ന ഊർജ്ജം ആണ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായി കപ്പാസിറ്റർ നെഗറ്റീവ് ഊർജ്ജം ആണ് വലിച്ചെടുക്കുന്നത് പക്ഷെ ഇതിന്റെ തുടക്കം കിട്ടുവാനായി ഡിസ്ചാർജ് കാണുന്നതിനായി നിങ്ങൾ ഊർജ്ജം എത്തിച്ചുകൊടുക്കണം അപ്പോൾ നിങ്ങൾ കപ്പാസിറ്റർ വലിച്ചെടുക്കുന്ന മൊത്തം ഊർജ്ജം എടുത്താൽ അത് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ കപ്പാസിറ്റർ ഊർജ്ജം വലിച്ചെടുക്കുന്നു അത് പാസ്സീവ് ആണ് തീർച്ചയായും ഇത് കപ്പാസിറ്ററിന്റെ വളരെ ഉപയോഗമുള്ള പ്രയോജനം ആണ് അതിനെ നമുക്ക് ഒരു പ്രത്യേക വോൾട്ടേജ് വരെ ചാർജ് ചെയ്യാം കൂടാതെ അതിനെ ഊർജ്ജത്തിന്റെ സ്രോതസ്സും ആയിട്ട് ഉപയോഗിക്കാം ഇതിനാലാണ് കപ്പാസിറ്റർ നമുക്ക് വേറെ പല പ്രയോജനങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ഊർജ്ജം വലിച്ചെടുക്കുന്നു കൂടാതെ കപ്പാസിറ്റർ ഒരു വോൾട്ടേജ് യിൽ അതായത് ഒരു കപ്പാസിറ്ററിനു വോൾട്ടേജ് ഉള്ളപ്പോൾ അതിനു ഒരു ഊർജ്ജം സംഭരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇത് വ്യക്തമാണ് നമുക്ക് വേഗത്തിൽ ഒരു ഉദാഹരണം എടുക്കാം എനിക്ക് C എന്ന ഒരു കപ്പാസിറ്റർ ഉണ്ട് പിന്നെ വോൾടേജ് V പിന്നെ I കറണ്ട് ഞാൻ കപ്പാസിറ്റർ വേവ്ഫോം നിർവചിക്കട്ടെ നമ്മൾ പറയുകയാണെങ്കിൽ 0 t 0 ആണെങ്കിൽ പിന്നെ അത് 10 മൈക്രോ സെക്കന്റിനു ഉള്ളിൽ കൂടി 5 വോൾട്ട്സ് ആകുന്നു എന്നിട്ടു ഞാൻ അനുമാനിക്കുകയാണ് അത് നേർരേഖയിലൂടെ കൂടും എന്ന് എന്നിട്ട് അത് 5 വോൾട്ടിൽ സ്ഥായി ആയി നിൽക്കും എന്നിട്ട് നമ്മൾ പറയുകയാണ് കപ്പാസിറ്ററിന്റെ മൂല്യം 10 നാനോ ഫാരഡ് ആണെന്ന് എന്നിട്ട് ഞാൻ കപ്പാസിറ്ററിലൂടെ ഉള്ള കറണ്ട് വരയ്ക്കുകയാണ് നമുക്ക് അറിയാം t 0 ത്തിനു തുല്യം ആകുന്നതിനു മുന്നേ വോൾട്ടേജ് സ്ഥായിയായ മൂല്യം ആണെന്ന് അപ്പോൾ കറണ്ട് 0 ആണ് t 10 മൈക്രോ സെക്കന്റിനു തുല്യം ആകുമ്പോൾ വോൾടേജ് വീണ്ടും സ്ഥായിയാണ് അപ്പോൾ കറണ്ട് വീണ്ടും 0 ആണ് പക്ഷെ ഈ രണ്ടു ടെർമിനലിന്റെയും ഇടയിൽ കറണ്ട് അതായത് C dv dt 10 നാനോ ഫാരഡ് തവണ 5 വോൾട്ട് ഡിവൈഡഡ് ബൈ 10 മൈക്രോ സെക്കന്റ് 5 മില്ലി ആമ്പ് ആണ് ഈ ഇടവേളയിൽ ഞാൻ നേർരേഖ അനുമാനിച്ചത് കൊണ്ട് വോൾട്ടേജിന്റെ മാറ്റം നമുക്ക് സ്ഥായിയായി ഉണ്ട് അതായത് 5 മില്ലി ആമ്പ് അല്ലെങ്കിൽ 0 ഇനി നമ്മൾ എന്താണ് കണക്കാക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് പവർ കണക്കാക്കാം അത് വേറൊന്നുമല്ല പക്ഷെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഗുണനഫലം അപ്പോൾ t 0 ആകുന്നതിനു മുന്നേ വോൾട്ടേജും കറണ്ടും 0 ആണ് അതിനാൽ പവർ 0 ആണ് ഇനി t 10 മൈക്രോ സെക്കന്റ് കഴിയുമ്പോൾ വോൾട്ടേജ് 5 വോൾട്ട് ആണ് കറണ്ട് പൂജ്യവും അപ്പോൾ വീണ്ടും പവർ 0 ആണ് ഇനി ഈ ഇടവേളയിൽ നമുക്ക് നേർരേഖ ഉണ്ട് ഇതുപോലെ ഒരു കോൺസ്റ്റന്റ് വെച്ച് ഗുണിച്ചതു അപ്പോൾ ഇത് നേർരേഖയോട് സമാനമാണ് ഇത് ഇവിടെ t 10 മൈക്രോ സെക്കന്റ് എത്തുമ്പോഴുള്ള മൂല്യം ഈ 5 വോൾട്ടിന്റെയും ഈ 5 മില്ലി ആംപിയറിന്റെയും ഗുണനഫലം ആണ് അപ്പോൾ ഇതാണ് 25 മില്ലി വോൾട്ട് ഇതാണ് 5 മില്ലിആമ്പ് തവണ 5 വോൾട്ട് അപ്പോൾ ഇതാണ് കപ്പാസിറ്ററിലുള്ള പവർ നമ്മൾ കണ്ടുവരുന്നത് കപ്പാസിറ്ററിലുള്ള പവർ സമയത്തിന് അനുസരിച്ചു മാറും ഇനി കപ്പാസിറ്ററിൽ സംഭരിക്കപ്പെടുന്ന ഊർജ്ജം എന്താണ് ഏതൊരു സമയത്തെയും കപ്പാസിറ്ററിൽ സംഭരിക്കപ്പെടുന്ന ഊർജ്ജം ആ പോയിന്റ് വരെ ഉള്ള പവർ കർവ് ഇന്റഗ്രേറ്റ് ചെയ്തു ലഭിക്കാം നമ്മൾ പറയുകയാണ് ഈ പോയിന്റ് വരെ ഇനി നമുക്ക് ഈ മേഖലയിൽ ഉള്ളത് നിർണ്ണയിക്കണം നമുക്ക് ഇതുപോലെ ചെയ്യണ്ട കാരണം നമുക്ക് നേരത്തെ തന്നെ അറിയാം കപ്പാസിറ്റർ വോൾടേജ് മൂല്യമുണ്ടെങ്കിൽ കപ്പാസിറ്ററിൽ സംഭരിക്കപ്പെടുന്ന ഊർജ്ജം ആണെന്ന് നമ്മൾ 0 വോൾട്ടിൽ നിന്ന് തുടങ്ങി അത് VC വരെ പോകുന്നു അപ്പോൾ കപ്പാസിറ്ററിൽ ഉള്ള ഊർജ്ജവും അത് തന്നെ ആണ് ആയപ്പോൾ വലിച്ചെടുത്ത ഊർജ്ജം ഈ പോയിന്റ് വരെ t 10 മൈക്രോ സെക്കന്റ് വരെ അല്ലെങ്കിൽ t 10 മൈക്രോ സെക്കന്റിൽ സംഭരിക്കപ്പെടുന്ന ഊർജ്ജം ആണ് അവിടെ അതായത് വോൾടേജ്ജിന്റെ മൂല്യം 10 മൈക്രോ സെക്കന്റിൽ ഹാഫ് 10 നാനോഫാറെഡ് 5 സ്ക്വയർ വോൾട്ട് ഇവിടെ ആണ് നമ്മൾ നോക്കുന്നത് ഈ പോയിന്റിൽ അതായത് 125 നാനോ ജൂൾസ് തീർച്ചയായും ഈ കർവ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കിയാൽ വ്യാപ്തി ഒന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ കാണിച്ച കാരണം എന്താണെന്നു വെച്ചാൽ ആദ്യത്തെ പവറും ഊർജ്ജവും ഉള്ള ഒരു കണക്കുകൂട്ടലിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഊർജ്ജം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് കപ്പാസിറ്ററിനു കുറുകെ ഉള്ള വോൾടേജ് അറിയാം കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം അറിയാം പക്ഷെ കുറവ് മതി പവർ കണക്കുകൂട്ടാൻ പക്ഷെ അത് d1 ആകാം ഞാൻ കാണിച്ച പോലെ കൂടാതെ വേറെ കാരണവും ഞാൻ കാണിച്ചതും പല കുട്ടികൾക്കും സുഖപ്രദമല്ല വേവ്ഫോം വരക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ തോത് പക്ഷെ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു വേവ്ഫോം വരക്കുന്നത് വളരെ നല്ലതാണ് സർക്യൂട്ടിനെ കുറിച്ച് സ്വയമറിവ് കിട്ടാൻ അത് നിങ്ങൾക്ക് ശെരിക്കും കണക്കുകൂട്ടാൻ വേണ്ടിയല്ല പക്ഷെ കാര്യങ്ങൾ മാറ്റം വരുന്നു എന്ന് കാണിക്കാൻ വേവ്ഫോം വരക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ പരിഹരിച്ച തരത്തിലുള്ള വേവ്ഫോമുകൾ കൂടാതെ അസൈൻമെന്റിൽ തന്നിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവയിലെല്ലാം വേവ്ഫോമുകൾ ലീനിയർ ആണ് അത് വളരെ എളുപ്പം ആണ് ചെയ്യാൻ അതിനാൽ വേവ്ഫോം വരയ്ക്കാൻ ഞാൻ നിങ്ങളെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു ഏറ്റവും കുറഞ്ഞത് സർക്യൂട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ അതിനാൽ പ്രത്യേകമായി ടൈം ഡെറിവേറ്റീവ് ചിത്രത്തിലേക്ക് വരുന്ന കപ്പാസിറ്റർ പോലുള്ളവയിൽ കൃത്യമായി നിങ്ങൾക്ക് ചിലപ്പോൾ കണക്കുകൂട്ടാൻ സാധിച്ചെന്നു വരില്ല പക്ഷെ നിങ്ങൾക്ക് ചെറിയ അറിവ് വ്യത്യാസത്തെ കുറിച്ചു കിട്ടും V വലിച്ചുനീട്ടിയാൽ പിന്നെ V യുടെ ടൈം ഡെറിവേറ്റീവ് അങ്ങനെ അങ്ങനെ